അതിനാൽ അടുത്ത കുറച്ച് പ്രഭാഷണങ്ങളിൽ ഞാൻ ഇൻഡസ്ട്രി 4 0 ഇൻഡസ്ട്രിയൽ ഐഒടി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക വശങ്ങളും പരിശോധിച്ചു അതിനാൽ കാര്യക്ഷമതയിലേക്ക് സ്വയം മുന്നേറുന്ന വ്യവസായങ്ങൾ എങ്ങനെ സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുന്നു എന്ന് മനസിലാക്കേണ്ടത് ഇപ്പോൾ വളരെ പ്രധാനമാണ് അപ്പോൾ നമുക്കു ആദ്യം എന്താണ് ഒരു കേസ് സ്റ്റഡി എന്ന് നോക്കാം കേസ് പഠനങ്ങൾ വളരെ പ്രധാനമാണ് കാരണം അവ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും ആശയങ്ങളുടെ വ്യക്തതയും നൽകുന്നു നമ്മുടെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഇൻഡസ്ട്രി 4 0 IIOTഎന്നിവയെക്കുറിച്ചാണ് അതിനാൽ മുൻ പ്രഭാഷണങ്ങളിൽ നാം ആർജ്ജിച്ച അടിസ്ഥാനപരമായ അറിവ് ഏത് ആശയങ്ങളായാലും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു യഥാർത്ഥ ജീവിത പ്രശ്നം പരിഹരിക്കാൻ അവ എങ്ങനെ ഉപയോഗിക്കാം അതായതു ഏതെല്ലാം വ്യവസായങ്ങൾ ഉണ്ടോ അവയെല്ലാം എങ്ങനെ ഇൻഡസ്ടറി 4 ൦ ഉപയോഗിക്കുന്നു IIoTആശയങ്ങൾ സ്വീകരിച്ചു എങ്ങനെ വ്യവസായം വ്യാവസായിക പ്രക്രിയകൾ ഉൽപ്പന്നങ്ങൾ എന്നിവ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു നിങ്ങൾ വ്യാവസായിക പ്രക്രിയ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ അവ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം ഈ ഉൽപ്പന്ന നിർമ്മാണത്തിലെ കാര്യക്ഷമത എന്നിവ എങ്ങനെ ആണ് മെച്ചപ്പെടുന്നത് അതിനാൽ നിലവിലുള്ള ചില കേസുകൾ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് ഇൻഡസ്ടറി4 0 നൽകുകയും ചെയ്യും അതിനാൽ കേസ് സ്റ്റഡികൾ കളെക്കുറിച്ചുള്ള വ്യത്യസ്ത വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇൻഡസ്ടറി4 0 യിലൂടെ അവർക്ക് അവരുടെ ബിസിനസ്സ് പ്രക്രിയകൾ എങ്ങനെ മെച്ചപ്പെടുത്താം എങ്ങനെ വരുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താം ബിസിനസ്സിന്റെ മെച്ചപ്പെട്ട കാര്യക്ഷമതയിലേക്ക് സാങ്കേതിക പ്രക്രിയകൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നെല്ലാം നോക്കാം അതിനാൽ ഒരു കേസ് സ്റ്റഡിയിൽ ആയിരിക്കാം ഒരു പ്രത്യേക വ്യവസായവുമായി ബന്ധപ്പെട്ടതായിരിക്കാം കുറച്ച് വ്യക്തികളോ അല്ലെങ്കിൽ വിഷയമോ ആയേക്കാം അതിനാൽ ആദ്യം ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ നിർവചിക്കേണ്ടതുണ്ട് നമ്മൾ വിഷയം എന്താണെന്നു തീരുമാനിച്ചു കഴിഞ്ഞാൽ നിലവിൽ കാര്യങ്ങൾ എങ്ങനെയെല്ലാം നടക്കുന്നുവെന്ന് വി ശദമായി മനസിലാക്കേണ്ടതുണ്ട് തുടർന്ന് സാങ്കേതിക ഇടപെടലിലൂടെ നിലവിലുള്ള പ്രക്രിയകൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് നോക്കുന്നു നിങ്ങൾക്കായി കുറെ കേസ് സ്റ്റഡീസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ പ്രത്യേക കോഴ്സിൽ റിയൽ ഇൻഡസ്ട്രിയസുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളിലേക്ക് ഞങ്ങൾ പോയി ഈ വ്യവസായങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഉള്ളവയാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പടിഞ്ഞാറൻഭാഗത്ത് അവരുടെ നിലവിലുള്ള പ്രക്രിയകൾ ഞങ്ങൾ മനസ്സിലാക്കുകയും പ്രായോഗികമായി അവർ എന്താണ് ചെയ്യുന്നതെന്ന് രേഖപ്പെടുത്തി നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുമുണ്ട് അതിനാൽ ഈ കോഴ്സിലെ നിരവധി ലെക്ചറുകളിൽ ഇല്ലെന്ന് നമുക്ക് കണ്ടെത്താനാകും അവരുടെ ബസ്സിനെസ്സിലെഅടിസ്ഥാനത്തിൽ അവർക്ക് എന്തുചെയ്യാനാകുമെന്നതിനെക്കുറിച്ച് അവർക്ക് ഒരു നിർദ്ദേശം നൽകാനും കഴിയും ഞങ്ങൾ സന്ദർശിച്ച വ്യവസായങ്ങളിൽ ചിലത് പാൽ സംസ്കരണം പാക്കേജിംഗ് നിർമ്മാണം എന്നിവയൊക്കെയാണ് ഈ വ്യവസായങ്ങളെകുറിച്ചും അവ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും അടുത്ത കുറച്ച് ലെക്ച്ചറുകളിൽ ഞാൻ കാണിക്കാം ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും മറ്റും ചെയ്തിട്ടുണ്ട് അതിലൂടെ ഈ വ്യവസായങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാൽ സംസ്കരണം കൂടാതെ വ്യത്യസ്ത തരം നിർമ്മാണ വ്യവസായങ്ങളുടെയും മറ്റും ഡാറ്റകളും ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എന്നിവയുടെ കാര്യത്തിൽ അതിനാൽ വ്യാവസായിക IoT സൊല്യൂഷനുകൾ സ്വീകരിക്കുന്നതിലൂടെ അവർ ക്രമേണ സ്വയം രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണാൻ പോകുന്നു ഞാൻ ഇവിടെ വിദ്യാർത്ഥികളുടെ ചില മിനി പ്രൊജക്റ്റുകൾ യിലേക്ക് രൂപാന്തരപ്പെടുത്താനും കഴിയും എന്ന കുറച്ച് ആശയങ്ങൾ ലഭിക്കും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്താൻ പോകുന്നു അതിനാൽ റിയൽ ഇൻഡസ്ട്രീസിലും വ്യത്യസ്ത ലാബുകളിലും എന്താണ് നടക്കുന്നതെന്നും അവയുടെ നിലവിലുള്ള പ്രക്രിയകൾ മെച്ചപ്പെടുത്തുന്നതിനായി എന്തെല്ലാം ചെയ്യാമെന്നും നിങ്ങൾക്ക് മനസിലാക്കുന്നതിനായി ധാരാളം വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതിനാൽ അടുത്ത കുറച്ച് പ്രഭാഷണങ്ങളിൽ നിങ്ങൾ ഈ കേസ് സ്റ്റഡികളിലൂടെ സ്വീകരിക്കുന്നതിലൂടെ അവരുടെ നിലവിലുള്ള പ്രക്രിയകൾക്ക് എന്ത് പരിവർത്തനമാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്നതെന്നു ചിന്തിക്കുക അടിസ്ഥാനകാര്യങ്ങൾ സാങ്കേതികവിദ്യകൾ സാങ്കേതിക പരിഹാരങ്ങൾ ബിസിനസ്സ് സൊല്യൂഷനുകൾ തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ പ്രക്രിയകൾ മികച്ച രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ കവർ ചെയ്തിരിക്കുന്ന നിലവിലുള്ള അറിവുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിക്കുക ഈ വ്യവസായങ്ങൾ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അതിനായി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല അതുകൊണ്ട് നിലവിലുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യാനും അവയ്ക്കുള്ള ഒരു നിർദേശം തയ്യാറാക്കാനുമുള്ള അവസരമാണിത് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്ന റെക്കോർഡ് ചെയ്ത മിക്ക കേസ്സ്റ്റഡികളിലും ഇതിനകം തന്നെ ഉണ്ടായിരിക്കും എന്ന് കരുതരുത് അതിനാൽ അടുത്തതായി കാണിക്കാൻ പോകുന്ന വീഡിയോകളിലൂടെ ഈ വ്യവസായങ്ങളിൽ നിലവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാം നിങ്ങൾ ആദ്യം അവരുടെ നിലവിലുള്ള പ്രക്രിയകൾ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്ത ശേഷം ഈ അഡോപ്ഷന് അതിനാൽ പ്രോജക്റ്റ് മാനേജുമെന്റ് എല്ലാ വശങ്ങളും ശ്രദ്ധിക്കുക പിന്നെ അവസാനത്തെ കാര്യം നിങ്ങൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് സെൻസറുകൾ ആകർഷണീയതയാണ് കൂടാതെ കണക്റ്റിവിറ്റി വ്യത്യസ്ത യന്ത്രങ്ങൾ വിവിധ വസ്തുക്കളെ ബന്ധിപ്പിക്കൽ ഒരു വ്യവസായം ഒരു പ്രത്യേക വ്യവസായത്തിനുള്ളിലെ മറ്റൊരു വ്യവസായവുമായി ബന്ധിപ്പിക്കൽ വ്യത്യസ്ത യന്ത്രങ്ങൾ ഉപകരണങ്ങൾ സാങ്കേതികവിദ്യകൾ ആളുകളുടെ പ്രക്രിയകളെ ബന്ധിപ്പിക്കൽ തുടങ്ങിയവ നിങ്ങൾക്ക് എങ്ങനെ കണക്റ്റിവിറ്റി മെച്ചപ്പെടുത്താം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങളും ഇന്റെർഓപെറബിലിറ്റിയും മനസ്സിലാക്കുക എന്നതാണ് ചില ഓപ്പറേഷൻസ് സാധ്യമാക്കിക്കൊണ്ടു നിങ്ങൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താനാകും അതിനാൽ മനുഷ്യ ഇടപെടൽ കുറയ്ക്കുകയോ പൂർണമായി ഒഴിവാക്കുകയോ ചെയ്തുകൊണ്ട് ഫുള്ളി ഓട്ടോണോമസും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ അനുയോജ്യമായ സെൻസറുകളുടെ ശേഖരിക്കുന്നു സെൻസർഅടിസ്ഥാനമാക്കി മെഷീൻ അത് നിലവിൽ ചെയ്യുന്ന ജോലി കൂടുതൽ മെച്ചപ്പെടുത്തതുകയും ചെയ്യുന്നു അതിനാൽ സെൻസിംഗ് ഇത് തൽഫലമായി മനുഷ്യ ഇടപെടൽ കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂര്ണമാക്കി ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിനാൽ ഓരോ കേസ് പഠനത്തിലും മുൻ പ്രഭാഷണങ്ങളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏതൊക്കെ സെൻസറുകൾ വിന്യസിക്കേണ്ടതുണ്ട് എന്നെല്ലാം ചിന്തിക്കുക പല കേസുകളിലും ഒരൊറ്റ നെറ്റ്വർക്ക് മാത്രമല്ല ഉപയോഗിക്കുന്നത് സിസ്റ്റത്തിന്റെ വളരെ പ്രധാനമാണ് ഡിവൈസ് ലെവൽ ഇന്ററോപ്പറബിളിറ്റി സ്വീകരിക്കുന്നത് അതിനാൽ അവരുടെ പ്രശ്നം എന്താണെന്ന് ചിന്തിക്കുക ഇൻഡസ്ട്രി 4 0 IIoT എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനകം അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിലവിലുള്ള ഈ ആശയങ്ങൾക്ക് അവയുടെ പ്രക്രിയകൾ എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും അവർക്ക് എന്ത് നിർദ്ദേശം നല്കാനാകുമെന്നും ചിന്തിക്കുക നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അവർക്കു സ്വീകാര്യമാണോ എന്നത് അവർക്ക് വിടുക അതിനാൽ ആ ഭാഗം നമുക്ക് ഉപേക്ഷിക്കാം അത് ഈ പ്രത്യേക കോഴ്സിന്റെ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാം എന്നാൽ ശരിക്കും അവരെ പോയി കണ്ട് ഈ പരിഹാരങ്ങൾ സ്വീകരിക്കാനായി അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നില്ല അതിനാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഫീഡ്ബാക്ക് കണ്ട്രോളും അവിഭാജ്യമായ ഒന്നാണ് തൊഴിലാളികളുടെ ആരോഗ്യ അപകടങ്ങൾ കുറയ്ക്കുന്നതിനും മൊത്തത്തിലുള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ഇവ സഹായിക്കുന്നു ഇവ നിങ്ങൾ ചിന്തിക്കേണ്ട വ്യത്യസ്ത പ്രശ്നങ്ങളിൽ ചിലതാണ് ഈ വ്യത്യസ്ത ആട്രിബ്യൂട്ടുകളുമായിമായി ബന്ധപ്പെട്ട്ഞ ഞങ്ങൾ അവതരിപ്പിക്കാനും വിശകലനം ചെയ്യാനും പോകുന്ന കേസുകൾ നിങ്ങൾ നോക്കി കാണു ഇതോടെ നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നു വ്യത്യസ്ത കേസുകളിൽ ഞാൻ എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക ഈ പ്രത്യേക പ്രഭാഷണത്തിൽ ഞാൻ ലിസ്റ്റ് ചെയ്ത പോയിന്റുകളെക്കുറിച്ച് ചിന്തിക്കുക നന്ദി